ടു പോർട്ടുകളുടെ ഗെയിൻ ഞങ്ങൾ വിലയിരുത്തി ടു പോർട്ടിന്റെ ഒരു വശത്തേക്ക് ഒന്ന് പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഒരു സിഗ്നൽ സോഴ്സിനെ ബന്ധിപ്പിക്കുന്നു അത് ഒരു റെസിസ്റ്റൻസിനോട് സീരീസിലുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് മാതൃകയാക്കുന്നു മറുവശത്തേക്ക് ഞങ്ങൾ ഒരു ലോഡ് കണക്ട് ചെയ്യുന്നു അത് ഒരു ലോഡ് റസിസ്റ്റൻസ് RL ൽ മാതൃകയാക്കുന്നു വോൾട്ടേജ് ഗെയിനിന്റെ എക്സ്പ്രഷൻ ഞങ്ങൾക്ക് ലഭിച്ചത് ഇതാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് y പാരാമീറ്ററുകളിലെ നിയന്ത്രണങ്ങൾ കണ്ടെത്തുക എന്നതാണ് അതുവഴി ഈ ഗെയിൻ ഞങ്ങൾ പരമാവധിയാക്കുന്നു ഇപ്പോൾ VS ഉം RS ഉം ഇവ സിഗ്നൽ സോഴ്സിലാണ് അതിനാൽ RS ൽ ഞങ്ങൾക്ക് നിയന്ത്രണമില്ല RS നൽകിയിട്ടുണ്ട് RS ന്റെ മൂല്യം പരിഗണിക്കാതെ തന്നെ വോൾട്ടേജ് ഗെയിൻ പരമാവധിയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂടാതെ RL എന്നത് ലോഡ് ആണ് അതിനാൽ ഇതും നൽകിയിരിക്കുന്നു RL ന്റെ മൂല്യം പരിഗണിക്കാതെ തന്നെ ഗെയിൻ പരമാവധിയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ പദപ്രയോഗത്തിൽ നിന്ന് ആദ്യം GS GL എന്നിവ നോക്കാം അവ പോസിറ്റീവ് ആയ ലോഡ് കണ്ടക്ടൻസും സോഴ്സ് കണ്ടക്ടൻസും ആണ് കൂടാതെ y11 y12 എന്നിവയും സാധാരണയായി പോസിറ്റീവ് ആണെന്ന് മാറുന്നു ഇത് ഒരു നോൺലീനിയർ ടു പോർട്ടിനായി ആവശ്യമില്ല പക്ഷേ ഞങ്ങൾ അവയെ പോസിറ്റീവ് ആയി കണക്കാക്കും അങ്ങനെയെങ്കിൽ ഈ y11 ഡിനോമിനേറ്ററിലേക്ക് ചേർക്കുന്നു ഡിനോമിനേറ്റർ നിർണ്ണയിക്കാൻ y22 ചേർക്കുന്നു അതിനാൽ ഗെയിൻ പരമാവധിയാക്കാൻ വ്യക്തമായി y11 പൂജ്യവും y22 പൂജ്യവും ആയിരിക്കണം വീണ്ടും അങ്ങനെ y11 ഉം y22 ഉം ഡിനോമിനേറ്ററിലെ നിബന്ധനകളിലേക്ക് ചേർക്കുക അതിനാൽ വോൾട്ടേജ് ഗെയിൻ പരമാവധിയാക്കാൻ ഈ രണ്ട് അളവുകളും കഴിയുന്നത്ര ചെറുതായിരിക്കണം കൂടാതെ അവ പോസിറ്റീവ് ആണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നതിനാൽ അവ പൂജ്യമായിരിക്കണം എന്ന് ഞങ്ങൾ പറയും ഇത് മനസ്സിലാക്കാൻ വളരെ ലളിതമാണ് കൂടാതെ y21 ന്യൂമറേറ്ററിൽ മാത്രമേ ദൃശ്യമാകൂ അതിനാൽ വ്യക്തമായും y21 ന്റെ പരമാവധി മൂല്യം ലഭിക്കുന്നത് ഗെയിൻ വർദ്ധിപ്പിക്കും അതിനാൽ y21 കഴിയുന്നത്ര വലുതായിരിക്കണം ഇപ്പോൾ ശേഷിക്കുന്ന അവസാന പാരാമീറ്റർ y11 ആണ് ഇപ്പോൾ ഇത് കുറച്ചുകൂടി സൂക്ഷ്മമാണ് ഇപ്പോൾ ഒന്നാമതായി എങ്ങനെയെങ്കിലും നിങ്ങൾ y11 y21 ന്റെ ഉൽപ്പന്നം ഇവിടെയുള്ളതിന് തുല്യമാക്കിയാൽ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ പൂജ്യമാക്കാം കൂടാതെ ഗെയിൻ അനന്തതയിലേക്ക് പോകട്ടെ ഈ y11 എന്താണ് y12 ഇത് i1 ലെ v2 ന്റെ ഇഫക്റ്റാണ് അത് പോർട്ട് ഒന്നിലെ പോർട്ട് രണ്ടിന്റെ ഫലമാണ് അടിസ്ഥാനപരമായി ഈ രണ്ട് പോർട്ട് നെറ്റ്വർക്കിനുള്ളിൽ ഫീഡ്ബാക്ക് ഉണ്ട് പോർട്ട് രണ്ട് മുതൽ പോർട്ട് ഒന്ന് വരെ കുറച്ച് ഫലമുണ്ട് സാധാരണയായി ഇതിന് ഒരു ആംപ്ലിഫയർ ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നുവെങ്കിൽ പോർട്ട് ഒന്നിലേക്ക് ഒരു ഇൻപുട്ട് പ്രയോഗിച്ച് പോർട്ട് രണ്ടിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുക ഔട്ട്പുട്ട് ഇൻപുട്ടിനെ ബാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ആന്തരികമായി ഈ പാരാമീറ്റർ y12 നൽകുന്ന ചില ഫലങ്ങളുണ്ട് ഇപ്പോൾ ഇതിന്റെ ഫലം വളരെ സങ്കീർണ്ണമായേക്കാം കാരണം ഇത് GS GL എന്നിവയുടെ മൂല്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഇത് റദ്ദാക്കുന്നതും അനന്തതയിലേക്ക് പോകാനുള്ള ഗെയിനുമാണ് അനന്തതയുടെ ഗെയിൻ എന്താണ് അർത്ഥമാക്കുന്നത് അത് അസ്ഥിരമായ സർക്യൂട്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു ഇൻപുട്ട് ഇല്ലാതെ പോലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സർക്യൂട്ട് അതിനാൽ അതൊരു അസ്ഥിരമായ സർക്യൂട്ട് ആണ് തീർച്ചയായും നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നാണ് അതിനാൽ GS GL എന്നിവയുടെ കൃത്യമായ മൂല്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഈ എക്സ്പ്രഷൻ പരമാവധിയാക്കാൻ y12 മൂല്യങ്ങൾ ഉപയോഗിച്ച് കളിക്കാൻ കഴിയുമെങ്കിലും അതിനാൽ ആ സങ്കീർണതയിലേക്ക് കടക്കാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആന്തരികമായി ഫീഡ്ബാക്ക് ഇല്ലാത്ത y12 പൂജ്യമാകുമ്പോഴാണ് സുരക്ഷിതമായ ബദൽ നിങ്ങൾ പോർട്ട് ഒന്നിലേക്ക് ഒരു സിഗ്നൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് പോർട്ട് രണ്ടിലേക്ക് കടത്തിവിടുന്നു എന്നാൽ നിങ്ങൾ പോർട്ട് രണ്ടിലേക്ക് ഒരു സിഗ്നൽ പ്രയോഗിച്ചാൽ ഏറ്റവും സുരക്ഷിതമായ പോർട്ട് ഒന്നിലേക്ക് ഒന്നും വരുന്നില്ല അതിനാൽ ഇത് പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും ഡിനോമിനേറ്റർ നിങ്ങൾക്ക് ഈ നിബന്ധനകൾ മാത്രമേ ഉണ്ടാകൂ അത് പോസിറ്റീവ് ആയിരിക്കും ഡിനോമിനേറ്റർ പൂജ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഒഴിവാക്കാൻ പൂജ്യത്തിന് തുല്യമായ y12 അതിനാൽ വിശാലമായി ഇവ രണ്ട് പോർട്ടുകളുടെയും ചെറിയ സിഗ്നൽ പാരാമീറ്ററുകളുടെ നിയന്ത്രണമാണ് അതിനാൽ ഇതിൽ നിന്ന് രണ്ട് പോർട്ടുകളുടെ വലിയ സിഗ്നൽ സ്വഭാവം നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട് ഞങ്ങൾ ഒരു പ്രത്യേക ഉപകരണമോ ഏതെങ്കിലും പ്രത്യേക ആംപ്ലിഫയിംഗ് ഉപകരണമോ എടുത്തിട്ടില്ലെന്ന് ഓർക്കുക വോൾട്ടേജുകളുടെ പ്രവർത്തനമായി വൈദ്യുതധാരകൾ ഉപയോഗിച്ച് ഉപകരണം വിവരിച്ചിട്ടുണ്ടെന്നും ഇൻക്രിമെന്റൽ പാരാമീറ്ററുകളിലെ നിയന്ത്രണങ്ങൾ ഉരുത്തിരിഞ്ഞുവെന്നും ഞങ്ങൾ അനുമാനിക്കുന്നു വഴിയിൽ നിങ്ങൾക്ക് മറ്റ് പാരാമീറ്ററുകളും ഉപയോഗിക്കാം അതായത് നിങ്ങൾക്ക് നോൺലീനിയർ ഉപകരണമുണ്ടെങ്കിൽ വൈദ്യുതധാരകളുടെ പ്രവർത്തനങ്ങളായി വിവരിച്ച വോൾട്ടേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് z പാരാമീറ്ററുകൾ ആയ ചെറിയ സിഗ്നൽ പാരാമീറ്ററുകൾ നേടാനും സമാന നിയന്ത്രണങ്ങൾ വിലയിരുത്താനും കഴിയും നിങ്ങൾ സമാനമായ നിഗമനങ്ങളിൽ എത്തിച്ചേരും അതായത് ഈ y21 ഫോർവേഡ് പാരാമീറ്റർ എന്താണ് y21 അത് പോർട്ട് രണ്ടിലെ പോർട്ട് ഒന്നിന്റെ ഫലമാണ് അത് കഴിയുന്നത്ര വലുതായിരിക്കണം ഒപ്പം പോർട്ട് ഒന്നിൽ പോർട്ട് രണ്ടിന്റെ ഫലമായ y12 എന്ന ഫീഡ്ബാക്ക് പാരാമീറ്റർ കഴിയുന്നത്ര ചെറുതായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാരാമീറ്ററുകൾ പരിഗണിക്കാതെ തന്നെ ഇവ നിയന്ത്രണങ്ങളായിരിക്കുമെന്ന് ഇത് മാറുന്നു യഥാർത്ഥ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും y പാരാമീറ്ററുകൾ അല്ലെങ്കിൽ വൈദ്യുതധാരകൾ വോൾട്ടേജുകളുടെ പ്രവർത്തനങ്ങളായി നന്നായി വിവരിച്ചിരിക്കുന്നു അതിനാലാണ് ഞങ്ങൾ അവ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ നാളെ മറ്റൊരാൾ വ്യത്യസ്തമായ ഒരു ഉപകരണം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയണം